ഞങ്ങൾ Wi Fi IEEE 802 11 എന്ന കണക്റ്റിവിറ്റി മൊഡ്യൂൾശരിയാണ് എന്റെ പ്രോജക്റ്റിന്റെ അതിനാൽ ഇവിടെ NodeMCU ഒരു സബ്സ്ക്രൈബർ ആയും പ്രവർത്തിക്കുന്നു മൊബൈൽ ആക്കുന്നു

ഇപ്പോൾ ഞാൻ ഈ പ്രോജക്റ്റിനെക്കുറിച്ചുള്ള തരാം ഇവിടെ MQTT ഡാഷ് നടപടിയെടുക്കുകയു ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഈ ബട്ടൺ ചെയ്തിട്ടുണ്ട് ഇതാണ് അൾട്രാസോണിക് സെൻസർ ആകും അതിനാൽ NodeMCU സെർവർ അയക്കുന്നു എന്റെ പേര് ചന്ദ്രാനി റേ ചൌധരി ഉപയോഗിക്കുന്നു

ഇവിടെ സർക്യൂട്ടിൽ അയക്കുകയും ചെയ്യുന്നു ഇവിടെ ഈ ലാപ്ടോപ്പ് കൂടി നമുക്ക് ആവശ്യമാണ് എന്റെ ഫോണിൽചെയ്തിട്ടുണ്ട് ഈ പ്രോജക്ടിന്റെഅറിയാനും അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും ഞാൻ ഇവിടെ ഈ പ്രോജക്റ്റിന്റെ സെർവറിലേക്ക് കൈമാറുന്നു അതിനാൽ റോഡ് സെർവിസിൽ കാണിക്കുന്നു ഇവിടെ മെസ്സേജുകളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എല്ലാവർക്കും നമസ്ക്കാരം ഞാൻ അരുൺ സംവിധാനങ്ങളും നിലവിൽ ഉണ്ട് പ്രധാനമായും മൂന്ന് സവിശേഷതകളാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ വഴി അറിയിക്കാനാകും മൂന്നാമത്തെ സവിശേഷത ഉടമ തന്റെ വീടിന് സമീപം എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഒരു വിദൂര സ്ഥലത്തു നിന്ന് ഒരു ഇമേജ് ക്ലിക്കു ഉപയോഗിക്കുന്നു ഇതാണ് ഉൽപ്പന്നം ഇതിന് ഒരു റാസ്ബെറി പൈ സീറോ ഒരു 5 മെഗാപിക്സൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് സെൻസർ എന്നിവയാണ് റാസ്പ്ബെറി പൈയിൽ മുഖം തിരിച്ചറിയാനായി ഉപയോഗിക്കുന്നു അറിയുന്ന മുഖങ്ങളുടെ ഒരു ഡാറ്റാബേസ് ഒരു അറിയിപ്പ് അയയ്ക്കുന്നു ഇതാണ് ആൻഡ്രോയിഡ് ആപ്പ് എന്നിവയും പ്രവർത്തിക്കുന്നു